ഹലോ ഈ വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഹീപ്പിനെ കുറിച്ചാണ് ഒരു സ്റ്റാക്ക് എങ്ങനെയാണ് ഓവർഫ്ലോ ആകുന്നതെന്നും സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിട്ടേൺ അഡ്രസ്സ്കൾ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുക തുടങ്ങിയ മലീഷ്യസ് ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നത് നമ്മൾ മുൻപറഞ്ഞ ലെക്ച്ചറുകളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഹീപ് ലൊക്കേഷൻ ഓവർഫ്ലോ ചെയ്തും ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെ ഹീപ്പിനെ എക്സ്പ്ലോയ്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ലളിതമായ പരിചയപ്പെടുത്തൽ ആണ് ആദ്യം നമുക്ക് ഒരു ഹീപ്പ് എങ്ങനെ പ്രോഗ്രാമിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്നും പിന്നെ നമുക്ക് എക്സ്പ്ലോയ്റ്റിലേക്കും കടക്കാം ഈ കോഡ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിത് വിർച്ച്വൽ മെഷീനിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യണം എന്നിട്ട് കംപൈൽ ചെയ്തു റൺ ചെയ്യാം പിന്നെ ഇത് ചെയ്യാനായി നിങ്ങൾ മെയ്ക് ക്ലീൻ ആക്ടിവിറ്റി ചെയ്യണം ഇവിടെ നമുക്ക് 3 പ്രോഗ്രാംസ് ഉണ്ട് T0 c T1 c T2 ഈ വിവരണത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് T0 c ആണ് അപ്പോൾ നമുക്ക് T0 c ഓപ്പൺ ചെയ്യാം ഇത് വളരെ ചെറിയ ഒരു സി പ്രോഗ്രാം ആണ് അകെ രണ്ട് എംഅലോക് സ്റ്റേറ്റ്മെൻറ്സ് ആണുള്ളത് അത് ഇൻവോക് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം 64 ബൈറ്റ്സ് സൈസ് ഉള്ള ഒരു ഡാറ്റാ ടി data T എന്ന സ്ട്രക്ച്ചർ അലോക്കേറ്റ് ചെയ്യാനുള്ളതാണ് മറ്റേത് f ആണ്അത് ഹീപ്പിൽ fp T എന്ന സ്ട്രക്ച്ചർ അലോക്കേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് FB T ക്കു fp എന്ന ഒരു ഫങ്ക്ഷൺ പോയിൻറർ മാത്രമേയുള്ളു ഇവിടെ എന്താണ് ചെയുന്നത് എന്ന് വച്ചാൽ നമ്മൾ ഫങ്ക്ഷൺ പോയിൻറർ f നെ നൌഇന്നറിലേക്കു ഇനിഷ്യലൈസ് ചെയ്യുന്നു അപ്പോൾ നോക്കു നൌഇന്നർ ഇവിടെയാണ് അത് വെറുതെ പാസ്സ് ചെയ്യപ്പെടാത്ത ലെവലുകൾ പോയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ വേറെയൊരു printf ഉണ്ട് പിന്നെയൊരു strcpy യും ഇപ്പോൾ strcpy ഒരു d name ഉപയോഗിക്കുന്നു അതിലേക്കു കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ് ആയ ആർഗ്യുമെൻറ് 1 കോപ്പി ചെയ്യുന്നു പിന്നെ ffp ലേക്ക് ഉള്ള ഇൻവോക്കേഷനും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വച്ചാൽ ആദ്യം strcpy ഇൻവോക് ചെയ്യപ്പെടും പിന്നെ നൌഇന്നറിലേക്കു പോയിൻറ് ചെയ്യുന്ന fp ഫങ്ക്ഷൺ ഇൻവോക് ചെയ്യപ്പെടും പിന്നെ ഈ പ്രത്യേക printf എക്സിക്യൂട്ട് ചെയ്യും അതായതു പാസ്സ് ചെയ്യപ്പെടാത്ത ലെവൽ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് T0 റൺ ചെയ്ത് ഇതുപോലുള്ള കുറച്ചു ഇന്പുട്സ് കൊടുക്കാം കുറച്ചു നീളം കുറഞ്ഞ ആർഗ്യുമെൻറ്സ് നമ്മൾ എന്താണ് കാണുന്നതെന്ന് വച്ചാൽ അത് പാസ്സ് ചെയ്യപ്പെടാത്ത ആ ലെവൽ പ്രിൻറ് ചെയ്യും എങ്ങനെ എക്സ്പ്ലോയ്ട് ഉപയോഗിക്കാം എന്നതിലേക്ക് പോകുന്നതിനു മുമ്പ് ഇപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങള്ക്ക് മനസ്സിലാക്കാം ഈ എക്സ്പ്ലോയ്ട് strcpy ലുള്ള വൾനറബിലിറ്റി മൂലം ആണെന്ന് strcpy ആർഗ്യുമെന്റിനെ d name ലേക്ക് കോപ്പി ചെയ്യുന്നു അത് കൊണ്ട് d name ൻറെ ലെങ്ത് 64 ബൈറ്റ്സ് ഫിക്സഡ് ആണ് ആർഗ്യുമെൻറ് 1 കമാൻഡ് ലൈനിലൂടെ യൂസർ കൺട്രോൾ ചെയ്യുന്നു അത് കൊണ്ട് ആർഗ്യുമെൻറ് 1 ന് d name നെ ഓവർഫ്ലോ ചെയ്യാൻ കഴിയും അതിൻറെ ലെങ്ത് 64 ബൈറ്റ്സ്സിനെക്കാൾ കൂടുതൽ ആണെങ്കിൽ അപ്പോൾ നമുക്കാദ്യം ശരിയായ ഇൻപുട്ട് വച്ച് ഈ പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് നോക്കാം എന്നിട്ട് നമുക്കീ പ്രോഗ്രാം അതേ നീളം കുറഞ്ഞ ഇൻപുട്ട് സ്ട്രിങ് വച്ച് റൺ ചെയ്യാം ഇവിടെ അഞ്ചാറു A ഉണ്ട് നമ്മൾ ലൈൻ നമ്പർ 34 ൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടു തന്നെ ഇതുവരെ ഒരു എംഅലോക് പോലും വിളിച്ചിട്ടില്ല നമ്മൾ തിയറി ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതുപോലെ എംഅലോക് ഇതുവരെ വിളിക്കാത്തതിനാൽ ഹീപ്പിൻറെ ഇനിഷ്യൽ സൈസ് 0 ആയിരിക്കും അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ പ്രത്യേക പോയിൻറ് വരെ ഒരു ഹീപ്പും ലഭ്യമായിരിക്കില്ല അപ്പോൾ info proc map കമാൻഡ് ഉപയോഗിച്ചു നമ്മുക്കിത് കാണാം നമ്മൾ എന്താണ് കാണുന്നതെന്ന് വച്ചാൽ തിയറിയിൽ കണ്ട പോലെ ഈ പ്രോസസ്സിന്റെ വിർച്വൽ സ്പേസ് കാണാം പ്രോസസ്സിലെ പല സെഗ്മെൻറ്സ് കാണാം സ്റ്റാർട്ട് അഡ്രസ്സും എൻഡ് അഡ്രസ്സും ഫ്രണ്ട് നിർവചിച്ച പോലെ നമുക്ക് T0 പ്രോഗ്രാമിന് വേണ്ടി പല സെഗ്മെൻറ്സ് ഉണ്ട് libc stack vdso അങ്ങനെ എന്താണ് ഇവിടെ നഷ്ടപെട്ടത് നമ്മൾ ഇതുവരെ ഒരു എംഅലോക് പോലും എക്സിക്യൂട്ട് ചെയ്യാത്തതിനാൽ ഈ സമയം വരെ ഒരു ഹീപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അടുത്ത ലൈൻ സിംഗിൾ സ്റ്റെപ് ആയി എംഅലോക് എക്സിക്യൂട്ട് ചെയ്തിട്ട് info proc map വീണ്ടും റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഹീപ്പ് ഇപ്പോൾ ഈ പ്രോഗ്രാമിന് അസൈൻ ചെയ്യപ്പെട്ടിട്ടു ണ്ടെന്ന് അപ്പോൾ ഇൻറ്ർണലി എന്താണ് സംഭവിച്ചത് എന്നാൽ ഈ പ്രോഗ്രാമിൽ ഇത് ആദ്യത്തെ എംഅലോക് ആയതുകൊണ്ട് libe ഉപയോഗിച്ച് ഈ പ്രോഗ്രാം ആയി ലിങ്ക് ചെയ്തിരിക്കുന്ന പിടിഎംഅലോക് കോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമിനെ ഇൻവോക്ക് ചെയ്യും എന്നിട്ട് ഒരു വലിയ 132 കിലോബൈറ്റ്സ് മെമ്മറി ചങ്ക് ആവശ്യപ്പെടും അപ്പോൾ 132 കിലോബൈറ്റ്സ് സൈസ് ഉള്ള 804b000 മുതൽ 806c000 വരെ ഉള്ള ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യപ്പെടും നിങ്ങൾക്ക് ഈ സൈസ് 21000 ആണെന്ന് വേരിഫൈ ചെയ്യാം ഇത് 132 കിലോബൈറ്റ്സിൻറെ ഹെക്ക്സാഡെസിമൽ നൊട്ടേഷൻ ആണ് നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം d യുടെ അഡ്രസ്സ് xd ആണ് d യുടെ വാല്യൂ 804b008 ആണ് അപ്പോൾ പിടിഎംഅലോക് ഇൻറ്ർണലി എന്താണ് ചെയ്യുന്നത് എന്ന് വച്ചാൽ ഹീപ്പിൽ ഡാറ്റാ ടി data T സ്ട്രക്ച്ചർ അലോക്കേറ്റ് ചെയ്യാനുള്ള ഫങ്ക്ഷൺ നമ്മൾ വിളിച്ചിട്ടുള്ളതിനാൽ പിടിഎംഅലോക് കോഡിന് 132 കിലോബൈറ്റ് മെമ്മറി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ രണ്ടായി ഭാഗിക്കുന്നു ഡാറ്റാ ടി യുടെ data T സൈസ് 64 ബൈറ്റ്സ് ആയതിനാൽ ഒരു ഭാഗം 64 ബൈറ്റ്സിനേക്കാളും കുറച്ചു കൂടുതൽ ആയിരിക്കും ബാക്കിയുള്ളത് ഫ്രീ മെമ്മറി ചങ്ക് ആണ് അത് ഉപയോഗിച്ചിട്ടില്ല d യുടെ അഡ്രസ്സ് 804b008 ൻറെ ഓഫ്സെറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഇത് ഹീപ്പിന്റെ സ്റ്റാർട്ട് ലൊക്കേഷൻ ആയി താരതമ്യം ചെയ്താൽ നമുക്ക് കാണാം ഇത് ഹീപ്പിന്റെ സ്റ്റാർട്ട് ലൊക്കേഷനിൽ നിന്ന് 8 ബൈറ്റ്സ് കഴിഞ്ഞാണെന്ന് 804b000 മുതൽ 804007 വരെയുള്ള ബൈറ്റുകളിൽ ആ ചങ്കിന്റെ മെറ്റാഡാറ്റ ആണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് മെറ്റാഡാറ്റ വീക്ഷിക്കാം ഇത് നമ്മൾ വെറുതെ ഹീപ്പ് ലൊക്കേഷൻ heap location ഡംപ് ചെയ്യുകയാണ് ഈ സമയത്തു ഇവിടെയാണ് മെറ്റാഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അതിന്റെ വാല്യൂ 49 ആണ് 49 ൻറെ ഹെക്ക്സാഡെസിമൽ 01001001 ആ LSB 1 സൂചിപ്പിക്കുന്നത് മുമ്പത്തെ ഇൻ യൂസ് ആണെന്നാണ് 100 സൂചിപ്പിക്കുന്നത് ഈ ചങ്കിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സൈസ് ആണ് അതുകൊണ്ട് ഇത് 64 ബൈറ്റ്സിനേക്കാളും കുറച്ചു കൂടുതൽ കാണും നമുക്കത് പിന്നെ വാലിഡേറ്റ് ചെയ്യാം ഓകെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടു പോകുമ്പോൾ f അലോക്കേറ്റഡ് ആകുന്നതു കാണാം അപ്പോൾ നമുക്ക് f ൻറെ അഡ്രസ്സ് നോക്കാം f ൻറെ ലൊക്കേഷൻ 804b050 ആണ് ഹീപ്പിൻറെ ബേസിൽ നിന്ന് f ൻറെ ഓഫ്സെറ്റ് നോട്ട് ചെയ്യാം പിന്നെ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇൻറ്ർണലി സംഭവിക്കുന്നത് എന്ന് കമ്പ്യൂട്ട് ചെയ്തു നോക്കാം അതുകൊണ്ട് നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങാം ഇതിനെ നമുക്ക് ആദ്യം പ്രോഗ്രാമിങ് മോഡിലേക്കും ഹെക്ക്സാഡെസിമൽ നൊട്ടേഷനിലേക്കു മൂവ് ചെയ്യാം ഹീപ്പിൻറെ ബേസ് 804b000 ആണ് ഈ മെമ്മറി അലോക്കേഷൻറെ ആദ്യത്തെ 8 ബൈറ്റ്സ് മെറ്റാഡാറ്റ ആണ് അതായത് d ക്കു വേണ്ടിയാണു അത് 8 ബൈറ്റ്സ് ആയതിനാൽ 804B008 ആണ് d യുടെ മെമ്മറി അഡ്രസ് ഇപ്പോൾ struct data T യുടെ സൈസ് 64 ബൈറ്റ്സ് ആണ് അതുകൊണ്ട് പിടിഎംഅലോക് ഇതിന്റെകൂടെ 64 ബൈറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളതിനാൽ 64 ൻറെ ഹെക്ക്സാഡെസിമൽ നൊട്ടേഷൻ 40 ആണ് അതുകൊണ്ട് 804B048 മുതൽ d യുടെ എൻഡ് ആയി കണക്കാക്കുന്നു അടുത്ത അലോക്കേഷൻ f ആണ് അതിനും മെറ്റാഡാറ്റ ഉണ്ട് ടു വേർഡ്സ് 8 ബൈറ്റ്സ് അപ്പോൾ ഇതിൻറെ കൂടെ 8 ആഡ് ചെയ്താ നമുക്ക് f ൻറെ അഡ്രസ് കിട്ടും അതായത് 804B050 ഇതുപോലെ ഈ സന്ദർഭത്തിൽ എങ്ങനെയാണു മെമ്മറി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം d ഉം f ഉം കണ്ടിഗ്യുവസ് ചങ്സ് ആണ് ഒന്നിന് ശേഷം മറ്റൊന്നായാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവയെ വേർതിരിക്കുന്ന ഇൻഫോമേഷൻ f ൻറെ മെറ്റാഡാറ്റ ആണ് ഇപ്പോൾ നമുക്ക് നോക്കാം ഈ strcpy ഉപയോഗിച്ചു എങ്ങനെ d ഓവർഫ്ലോ ചെയ്യാമെന്നും നീളമുള്ള ഒരു ആർഗ്യുമെൻറ് ഉപയോഗിച്ചു എങ്ങനെ f ൻറെ കൺടെന്റ് മോഡിഫൈ ചെയ്യാമെന്നും അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്റ്റെപ് കൂടി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തുടരാം നമ്മൾ ചെറിയ ഇൻപുട്ട് ആണ് strcpy ക്ക് കൊടുത്തിട്ടുള്ളതിനാൽ ഹീപ്പ് എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം എന്താണ് കാണുന്നത് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് കുറച്ച് A കൾ ആയതിനാൽ A യുടെ ASCII വാല്യൂ 41 ആണ് ഹെക്ക്സാഡെസിമലിൽ അതുകൊണ്ട് ആ വാല്യൂസ് ആണ് ഈ ലൊക്കേഷൻ മുതൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പിന്നെ ഡാറ്റ ടി യുടെ data T സൈസ് 64 ആയതിനാൽ ഇവിടെ നിന്ന് 64 ബൈറ്റ്സ് ആയതിനാൽഇവിടെ നിന്ന് 64 ബൈറ്റ്സ് കഴിഞ്ഞാൽ ഡാറ്റ ടി data T എന്ന സ്ട്രക്ച്ചറിന്റെ ലൊക്കേഷൻസ് അവസാനിക്കും പിന്നെ നമുക്ക് f ഉണ്ടാകും f നമ്മൾ നൌഇന്നർ ആയി ഇനിഷ്യലൈസ് ചെയ്തിട്ടുള്ളതിനാൽ നൌഇന്നറിന്റെ വാല്യൂ ഇവിടെ ലഭ്യമാണ് നമുക്ക് കാണാം സത്യത്തിൽ 080484B4 നൌഇന്നറിന്റെ അഡ്രസ്സ് ആണെന്ന് നമുക്ക് ഇങ്ങനെ പരിശോധിക്കാൻ കഴിയും gdb px nowinner അതായതു നൌഇന്നറിനെ ഡിസ്അസ്സെംബിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നൌഇന്നറിന്റെ സ്റ്റാർട്ട് അഡ്രസ്സ് 080484B4 ആണ് ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് മാറ്റം വരുത്താം ഹീപിലുള്ള നൌഇന്നറിന്റെ അഡ്രസ്സ് വിന്നെറിന്റെതായി മാറ്റാം അങ്ങനെ നമുക്ക് ഈ എക്സിക്യൂഷൻ ഒന്ന് അട്ടിമറിക്കാം ഇതിനായി നമുക്ക് ആദ്യം വിന്നെറിന്റെ അഡ്രസ്സ് നിർണ്ണയിക്കേണ്ടതാണ് അതിനായി നമുക്ക് വിന്നെർ ഫങ്ക്ഷൻ ഡിസ്അസ്സെംബിൾ ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം വിന്നെർ ഫങ്ക്ഷൻ തുടങ്ങുന്നത് 0804849B എന്ന അഡ്രസിൽ നിന്നാണ് അപ്പോൾ നമ്മൾ വിന്നെർ ഫങ്ക്ഷന്റെ സ്റ്റാർട്ട് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുവരെ സ്റ്റാക്കിൽ കാണുന്ന നൌഇന്നറിന്റെ സ്റ്റാർട്ട് അഡ്രസ്സ് ഓവർറൈഡ് ചെയ്യണം അതെങ്ങനെ എന്ന് നോക്കാം ഇവിടന്നങ്ങോട്ടു കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഈ കോഴ്സിൽ കണ്ടത് പോലെ തന്നെ ആണ് ആദ്യം നമുക്കറിയേണ്ടത് ഡാറ്റ ടി data T സ്ട്രക്ച്ചർ ഓവർഫ്ളോ ചെയ്യാൻ എത്ര അമൌണ്ട് വേണം എന്നാണ് അതായത് നമുക്ക് 72 ഇൻപുട്സ് വേണം ഇതെല്ലാം നിറയാൻ അതിനു ശേഷം വേണം നമ്മൾ മലീഷ്യസ് ഫങ്ക്ഷൻ ആയ വിന്നെറിന്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാൻ അപ്പോൾ ഇത് നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് അതായത് പേലോഡ് 2 ൽ എന്താണ് പേലോഡ് 2 ചെയ്യുന്നത് എന്നാൽ അത് 72 A കൾ ഉണ്ടാക്കുന്നു അതിനു ശേഷം 0804849B എന്ന അഡ്രസ്സും ഇത് നിങ്ങള്ക്ക് ഓർമ്മിക്കാൻ കഴിയും ലിറ്റിൽ ഇന്ത്യൻ നൊട്ടേഷൻ ആണ് ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഈ പറയുന്നത് പോലെ റൺ ചെയ്യാം ഇത് നിങ്ങൾക്കു വേണ്ടി ലഘൂകരിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ റൺ T0 എന്നിട്ട് ഒരു ഡോളർ സ്പെസിഫൈ ചെയ്യൂ പിന്നെ പേലോഡ് 2 payload 2 ഇതിനാൽ പേലോഡ് 2 ൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും 72 A കളുടെ സ്ട്രിങ്ങിൻറെ കൂടെ വിന്നെറിന്റെ അഡ്രസ്സും T0 ക്ക് പാസ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കാണാം ഹീപ്പ് വിജയകരമായി ഓവർഫ്ളോ ആകുന്നത് വിന്നെർ ഫങ്ക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വിജയകരമായി d ഓവർഫ്ളോ ചെയ്തു 72 A ഉം നൌഇന്നറിന്റെ അഡ്രസസും വച്ച് ഈ നൌഇന്നർ ഫങ്ക്ഷനു വേണ്ടിയുള്ള ഇൻവോക്കേഷൻ അതായതു ഈ fp വിന്നെർ ഫങ്ക്ഷനുമായി മാറ്റപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ വിന്നെർ ഫങ്ക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു അതുകൊണ്ട് ഇത് പോലെ രസകരമായ പല അറ്റാക്കുകളും നിങ്ങള്ക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ഉള്ള കുറച്ചെണ്ണം നമ്മൾ ഈ കോഴ്സിന് വേണ്ടി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹീപ്പിനെ കുറിച്ച് അധികം കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ലെക്ച്ചറിൽ കാണാം